നാലാമത്തെ session ലേക്ക് സ്വാഗതം മൂന്ന് സെഷനുകൾ നിങ്ങൾ ആസ്വദിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു എന്താണ് ഫിനാൻസ് അക്കൌണ്ടൻസി എന്ന് നമ്മൾ ആരംഭിച്ചു പിന്നെ ഫിനാൻഷ്യൽ Statements സംബന്ധിച്ചുളള ചർച്ചയാണ് ചെയ്തത് ചെയ്തത് പ്രധാനമായും ബാലൻ ഷീറ്റിന് സംബന്ധിച്ചുള്ള ചർച്ചയാണ് ചെയ്തത് ബിസിനസ് സൈക്കിളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവരുന്ന document ആണ് ബാലൻസ് ഷീറ്റ് ആനുവൽ റിപ്പോർട്ടിനെപ്പറ്റി ഉള്ള ചർച്ചയിൽബാലൻസ്ഷീറ്റ് സംബന്ധിച്ച് ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ബാലൻസ്ഷീറ്റ്ൻറെഒരുഷോർട്ട് ഫോർമാറ്റ്അവതരിപ്പിച്ചിരിക്കുന്നു ഒരു സൈഡ് Assets ആണ് ഒരു സ്ഥാപനത്തിൻറെ Resources ആണ്Assets രണ്ടാമത്തെ സൈഡ് Liabilities ആണ് സ്ഥാപനത്തിൻറെ ഉടമസ്ഥരും സ്ഥാപനത്തിന് പുറമേയുള്ള വ്യക്തി കളുമാണ് സ്ഥാപനത്തിന് ആവശ്യമായ Resources കൊണ്ടുവന്നവർ സ്ഥാപനത്തിൻറെ ഉടമസ്തൻ കൊണ്ടുവന്ന ഫണ്ടിന് Owners Funds എന്നാണ് വിളിക്കുന്നത് സ്ഥാപനത്തിന് outsideഉള്ള Banks ഉൾപ്പെടെയുള്ള ഉള്ള വ്യക്തികൾ കൊണ്ടുവന്ന ഫണ്ടിനെ external liabilities എന്നാണ് വിളിക്കുന്നത് രണ്ടും Liabilities ഹെഡ്ഡിംഗ് കാണിക്കുന്നു അതിനുശേഷം നമ്മൾ VIthschedule സംബന്ധിച്ച് ചർച്ചനടത്തുകയുണ്ടായി എന്താണ് VI th Shedule അത് കമ്പനി ACT അനുസരിച്ചുള്ള VI th Schedule ളാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാ കമ്പനികളും ആ ഫോർമാറ്റ് അനുസരിച്ച് വേണം ബാലൻസ് ഷീറ്റ് വരക്കേണ്ടത് ഒന്നാമത്തെ ഇനം ഇക്വിറ്റി ആൻഡ് Liabilities ആണ് അതിനെപ്പറ്റി കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തുകഴിഞ്ഞു അതിൽ ഒന്നാമത്തെ Item shareholders funds ആണ് എന്താണ് shareholders funds IIT ടീം നിങ്ങളുടെ എല്ലാ സംശയങ്ങളുടെ ഉത്തരം തരുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡിസ്കഷൻ ഫോറത്തിലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ ഒരു കമ്പനി തീരുമാനിച്ചു ആ കമ്പനിയുടെ Annual reportഡൌൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു item number 1ഒന്നു താഴെ മൂന്ന് സബ് ഐറ്റംസ് ഉണ്ടായിരിക്കുന്നതാണ് share capital reserves and surplus and money received against share warrant കമ്പനിയുടെ ഉടമസ്ഥൻ മാരായ Shareholdersകൊണ്ടുവരുന്ന തുകയാണ് ഷെയർ ക്യാപിറ്റൽ കമ്പനിയുടെ ലാഭം വിതരണം ചെയ്യാതെ കമ്പനിയിൽ തന്നെ സൂക്ഷിക്കുമ്പോൾ അതിനെ Reserves and Surplus വിളിക്കുന്നു ഷെയർ ലഭിക്കുന്നതിന്പണം അടച്ചിട്ടുണ്ട് എന്നാൽ ഷെയർ ലഭിച്ചിട്ടില്ല അത്തരത്തിലുള്ളആളുകളെയാണ് share warranഎന്നെഴുതി സൂചിപ്പിക്കുന്നു item number 2 share application money pending allotment ഭാവിയിൽ ഷെയർ ലഭിക്കുന്നതിന്അപ്ലിക്കേഷൻ മണി അടച്ചിട്ടുണ്ട് അവർക്ക് Share ലഭിച്ചിട്ടില്ല ഷെയർ ലഭ്യമാക്കിയാൽ ഇത് Balance Sheet നിന്നു പോകും അല്ലാത്തപക്ഷം തുകതിരിച്ചു കൊടുക്കുന്നതാണ് Item number 3 is non current liabilities അതിൽ 4 items ഉണ്ട് എ long term borrowings ഒരു വർഷത്തിലധികം കാലാവധിയുള്ള Loans long term borrowings ആണ് b is deferred tax liability Deferred tax liabilityഇക്കൊല്ലം Pay ചെയ്യേണ്ട ആവശ്യമില്ല deferred tax liabilityരണ്ടുവർഷം അല്ലെങ്കിൽമൂന്നുവർഷം അല്ലെങ്കിൽ നാലുവർഷം കഴിഞ്ഞ് അടച്ചാൽ മതി അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് 4 c is other long term liabilities ആണ് എ ബി ഒഴികെയുള്ള ബാധ്യതയാണ് അത് ഒരു വർഷത്തിലധികം കാലാവധി വെച്ച് സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ ആണത് അത് ഒരു വർഷം കഴിഞ്ഞു തിരിച്ചു കൊടുത്താൽ മതിയാകും ഒരു കൊല്ലത്തിലധികം ആയി കൊടുക്കാതെഇരിക്കുന്ന സാലറി other long term liabilities എന്ന ശീർഷകത്തിൽ വരും പിന്നെ3D is long term provisions ആണ് കൃത്യമായി ഒരു ബാധ്യതകണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അതിനുവേണ്ടി വെക്കുന്ന ഒന്നാണ് പ്രൊവിഷൻ ഒരു കൊല്ലത്തിലധികം കഴിഞ്ഞ് കൊടുക്കേണ്ട ബാധ്യത ക്കുവേണ്ടി വെക്കുന്ന ഒന്നാണ് 3D is long term provisions നമ്പർ 4 current liabilities ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട Liabilities ആണ് 4 a is short term borrowings ഒരു കൊല്ലത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട വായ്പകൾ ആണിത് നമ്മൾ RawMaterials വാങ്ങിച്ചിട്ട് പണം കൊടുത്തിട്ടില്ലെങ്കിൽ അതാണ് Trade Payables 4 c any other current liabilities ആണ് outstanding salaries outstanding electricity bills outstanding office expenses outstanding stationary charges എന്നിവയാണ് ഉദാഹരണങ്ങൾ ഒരു കൊല്ലത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതകളാണ് other current liabilities 4 d a short term provisions ഒരു ഒരു ചെറിയ കാലയളവിൽവരുവാൻ സാധ്യതയുള്ള ബാധ്യത വേണ്ടിയാണ്short term provisions വെക്കുന്നത് ഇനി ബാലൻസ് ഷീറ്റ് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം അത് assets അത് കമ്പനിയുടെ properties അല്ലെങ്കിൽ resourcesആണ് അതിൽ ഒന്നാമത്തെ ഇനം പേര് സൂചിപ്പിക്കും പോലെ ഒരു വർഷത്തിനുള്ളിൽ കാശാക്കാൻ പറ്റാത്തതാണ് എന്നാൽ ന്കമ്പനിക്ക് വളരെ അധികം അത്യാവശ്യം ഉള്ളതാണ് അതിൽ എ Fixed Assets ആണ് അതിലെ ഒന്നാമത്തെ ഇനംtangible assets രണ്ടാമത്തെ ഇനം intangible assetsആണ് രണ്ടാമത്തെ സെഷനിൽ fixed Assetsനെപ്പറ്റിഡിസ്കഷൻനടത്തി എന്ന് വിചാരിക്കുന്നു സ്ഥാപനത്തിൻറെ infrastructure ആണ് Fixed Assets ഒരു സ്ഥാപനത്തിൻറെ ബിസിനസ് സൈക്കിൾ മുന്നോട്ടു കൊണ്ടുപോവാൻ Fixed Assets അത്യാവശ്യമാണ് അത് ബിസിനസ് സൈക്കിളിൽപ്പോയി പങ്കെടുക്കുന്നില്ല പരിവർത്തനം ചെയ്യപ്പെടുന്നില്ല അത് മണി സൈക്കിളിനെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ കയ്യിൽലാൻഡ് ഉണ്ടായിരിക്കാംകെട്ടിടങ്ങൾ ഉണ്ടായിരിക്കാം Machinery ഉണ്ടായിരിക്കാം വണ്ടി ഉണ്ടായിരിക്കാം അവയെല്ലാംഒരു ദീർഘകാലത്തേക്ക് ബിസിനസ് ചെയ്യുന്നതിനുവേണ്ടി ഉപയോഗിക്കുന്നവയാണ് നമ്മുടെ ദൈനംദിന ആയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നതിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് Fixed Assets എന്നു വിളിക്കുന്നത് രണ്ടു തരത്തിലുള്ള ഫിക്സഡ് Assets ഉണ്ട് അടുത്തത് intangible Tangible നമുക്ക് കാണുവാൻപറ്റും അതിന് ഒരു ഭൌതിക മായിട്ടുള്ള അസ്തിത്വമുണ്ട് ലാൻഡ് ബിൽഡിങ് വണ്ടി എന്നിവ എല്ലാം Tangible Assets ആണ് Intangible Assets ന്അസ്തിത്വമില്ല അത് കാണുവാൻപറ്റില്ല എന്നാൽ അതിനു വിലയുണ്ട് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർസ്ക്രീൻ എന്നിവ കാണാൻ പറ്റും അതെല്ലാം Tangible Assets ആണ് എന്നാൽ സോഫ്റ്റ്വെയർ കാണുവാൻ പറ്റില്ല തൊടുവാൻ പറ്റില്ലഅത് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലുള്ളതാണ് Intangible Asset മറ്റൊരു ഉദ്ധാരണത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ patents t copyrights trademarkഇതെല്ലാം കമ്പനിയുടെ അല്ലെങ്കിൽ ഉടമസ്ഥൻ റെ അവകാശങ്ങളാണ് ഈ അവകാശങ്ങൾ ഒരു ഭൌതിക രൂപം ഇല്ലാത്തവയാണ് അതുകൊണ്ട് intangible assetsഎന്നുവിളിക്കുന്നു ഇതെല്ലാം intangible fixed assetsആണ് പണ്ടുകാലത്ത് പ്രധാനപ്പെട്ടത്tangible assets ആണ് ഒരു നൂറുവർഷം മുമ്പത്തെ കാലഘട്ടത്തിൽ tangible assetsആയിരുന്നു പ്രധാനപ്പെട്ടത് എന്നാൽ ഇന്നത്തെക്കാലത്ത് പ പ്രധാനപ്പെട്ടത് intangible assets ആണ് ജനറൽ മോട്ടോഴ്സ് ജനറൽ ഇലക്ട്രിക് വയർ ford എന്നിവയായിരുന്നു പണ്ടുകാലത്തെപ്രധാനപ്പെട്ട കമ്പനികൾ ഇന്ന് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനികൾ ഞാൻ വിചാരിക്കുന്നു ഗൂഗിൾ അല്ലെങ്കിൽ Facebook അതുപോലെ മൈക്രോസോഫ്റ്റ് ഈ കമ്പനികൾക്ക് എല്ലാം തന്നെ തന്നെ ഭൌതിക Assets സ്വല്പം മാത്രമേയുള്ളൂ അധികം Assets intangible assets എന്ന കാറ്റഗറിയിൽ പെടുന്നു എന്താണ്capital work in progress ആണ് പണി നടക്കുന്നു എന്നാൽമുഴുവൻ ആയിട്ടില്ല വളരെക്കാലമായി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ്ക്യാപിറ്റൽ എന്ന വാക്ക് എഴുതിയത് കെട്ടിടത്തിന്പണി നടക്കുന്നു എന്നാൽപണി മുഴുവൻ ആയിട്ടില്ല പണി കഴിഞ്ഞാൽ അത് Tangible Fixed Assets ആയി കാണിക്കും ഇപ്പോൾ കുറച്ചു പണി കഴിഞ്ഞു അല്പം പണം ചെലവാക്കി മൂന്നുവർഷം പിടിക്കും പണി മുഴുവൻ ആവാൻ അതുകൊണ്ട് ഇപ്പോൾ Building എന്നോTangible Assets എന്നോ കാണിക്കാൻ പറ്റില്ല കൂടാതെ കൊടുത്ത പണം അഡ്വാൻസായി കാണിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് work in progressആയിട്ടാണ് കാണിക്കുന്നത് നാലാമത്തെ ഐറ്റംintangible assets under development എന്താണിത് capital work in progressപോലുള്ള ഒരു ഐറ്റം ആണ് വളരെയധികം Intangible Assets വികസിപ്പിച്ചെടുക്കുന്ന പാതയിലാണ് എന്നാൽ അത് ഉപയോഗിക്കാം ആയിട്ടില്ല നിങ്ങൾ PATENTS സിന് അപ്ലിക്കേഷൻ കൊടുത്തു എന്നാൽ Sanction ആയിട്ടില്ല നിങ്ങൾ വളരെയധികം തുക ഗവേഷണത്തിനു വേണ്ടി ചെലവഴിച്ചു ഈ സാഹചര്യത്തിൽ എന്ത് തുകയാണ് intangible assets under development ആയി കാണിക്കുക ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ ചെലവ് വന്നുകഴിഞ്ഞു അതാണ് intangible assets under developmentആയി കാണിക്കുക നിങ്ങൾ രണ്ടോ മൂന്നോ കൊല്ലത്ത് കമ്പനിയുടെ ബാലൻസ്ഷീറ്റ് പഠിക്കുക അതിൽമൂന്നാമത്തെയുംനാലാമത്തെയും ഐറ്റംനോക്കുക ഈ വർഷം under construction or under developmentആണ് അടുത്തവർഷം റെഡിയാകും പണി മുഴുവൻ ആയാൽ അതിനെ Tangible or intangible Asset ആയിബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതാണ് ഒരു ഐറ്റം രണ്ടോ അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാലു വർഷമായി അണ്ടർ കൺസ്ട്രക്ഷൻ ആയി കാണിക്കുന്നു എന്നാൽ അത് റെഡി ആയിട്ടില്ല അത് ശരിക്കുംഉള്ളതാണോ അതോ Fraud യാണോ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അവ വ്യക്തമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ കൂട്ടിയാൽ ടോട്ടൽ ഓഫ് Fixed Assetsകിട്ടും ഇനി ആ 1b non current investment ആണ് കഴിഞ്ഞസെഷനിൽഅതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തുകഴിഞ്ഞു നിങ്ങളുടെ പണം ബിസിനസിന് പുറത്ത് എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ അതിനെ investmentഎന്നു വിളിക്കുന്നു ബിൽഡിംഗ് വാങ്ങിച്ചാൽ സ്റ്റോക്ക് വാങ്ങിച്ചാൽ അത് ഇൻവെസ്റ്റ്മെൻറ് ആവില്ല ഉദാഹരണമായി ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു ബാങ്കിൽ നിക്ഷേപിക്കുന്നു Share വാങ്ങിക്കുന്നു Mutual ഫണ്ട് യൂണിറ്റ് വാങ്ങിക്കുന്നു ഇത്തരത്തിലുള്ള Investment ഒരു വർഷത്തിലധികം കാലയളവിലേക്ക് ചെയ്താൽ ഒന്ന് ബി non current investment ആയി കാണിക്കും നിങ്ങൾ പല ആളുകളും portfolio managementഅല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നതിനെ പറ്റി കേട്ടുകാണും നിങ്ങൾ എവിടെ പണം നിക്ഷേപിച്ചാൽ ഒന്ന് b ആയിട്ടാണ് കാണിക്കുക എങ്ങനെ മാനേജ് ചെയ്യണം എപ്പോൾ വാങ്ങിക്കണം എപ്പോൾ വിൽപ്പന നടത്തണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അതിനെ ആണ് പോർട്ട്ഫോളിയോ Management വിളിക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല കമ്പനിയുടെ പോർട്ട്ഫോളിയോ നിങ്ങളൊക്കെ 1 bൽകാണുവാൻ സാധിക്കും ഒന്ന് b നോക്കിയാൽ എത്തരത്തിലുള്ള നിക്ഷേപമാണ് കമ്പനിക്കുള്ള എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും 1c deferred tax asset കഴിഞ്ഞ ക്ലാസ്സിലുംഈ session ആരംഭത്തിലും നമ്മൾ t deferred tax liability പറ്റി ചർച്ചകൾ നടത്തിയിരുന്നു എന്താണ് deferred അത് ഇന്ന് dueആയിട്ടില്ല അല്ലെങ്കിൽ ഈവർഷം dueആയിട്ടില്ല അടുത്തവർഷം due ആവും അത് ബാധ്യതആണെങ്കിൽ deferred tax liability അല്ലെങ്കിൽ deferred tax asset ഇന്ന് ഇതിൻറെ ഗുണം കിട്ടില്ല രണ്ടോ അല്ലെങ്കിൽ മൂന്നുവർഷംഗുണം കിട്ടും അതാണ് deferred tax asset മൂന്നുവർഷം കഴിഞ്ഞ് ഗവൺമെൻറ് ടാക്സ് അടയ്ക്കുംഎന്നാണോ ഗവൺമെൻറും ടാക്സ്അടക്കുന്നില്ല എന്നാൽ രണ്ടുവർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ മൂന്നുവർഷം കഴിഞ്ഞ് ടാക്സ് അടയ്ക്കുന്നതിൽ കിഴിവുകൾ കിട്ടും അതാണ് deferred tax asset അതാണ് ഒന്ന് c അടുത്ത ഐറ്റം d long term loans and advanceആണ് എന്താണ് loans and advances രണ്ടു തരത്തിലുള്ള ലോൺ ഉണ്ട് ഒന്ന് കമ്പനി എടുത്തിരിക്കുന്ന ലോൺ അത് borrowing ആയി കാണിക്കണം കമ്പനി ലോൺ കൊടുക്കുമ്പോൾ അപ്പോൾ അത് loans and advances ആയി കാണിക്കണം നിങ്ങൾ ലോൺ അഡ്വാൻസ് എന്ന് കണ്ടാൽ അതൊരു Asset ആണെന്ന് വിചാരിക്കണം Loan എന്ന് മാത്രം കണ്ടാൽ അത് ഒരു ബാധ്യത ആയിരിക്കും ഒരു ദീർഘകാലത്തേക്ക് ലോൺ അഡ്വാൻസ് ആണെങ്കിൽ അത് Long Term ലോൺ അഡ്വാൻസ് ആയി ആയിട്ടാണ് കാണിക്കുക എന്താണ് ഒരു ഉദാഹരണം നിങ്ങൾ പുതിയ വീട് വാങ്ങുന്നതിനു വേണ്ടി വേണ്ടി കമ്പനിയിലെ ജീവനക്കാർക്ക് അഡ്വാൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക അഡ്വാൻസ് തീർച്ചയായും ഒരു വർഷത്തേക്ക് ആയിരിക്കില്ല അഞ്ചുവർഷത്തേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ പത്തുവർഷത്തേക്ക്ആയിരിക്കാം അല്ലെങ്കിൽ 15 വർഷത്തേക്ക് ആയിരിക്കാം ആയതിനാൽ അത് Long Term ലോൺ അഡ്വാൻസ് ആയിട്ടാണ് കാണിക്കുക l അതുപോലെ ഒരു Supplier ക്കെ രണ്ടുവർഷം അല്ലെങ്കിൽ ഇൽ മൂന്നുവർഷത്തേക്ക് ഒരു ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കാവുന്നതാണ് Supplier ഒരു പുതിയ മിഷനറി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് Supplier മൂന്നു കൊല്ലത്തിനു ശേഷം തിരിച്ചടയ്ക്കണം എന്ന് എന്ന വ്യവസ്ഥയിൽ ലോൺ കൊടുക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ലോൺ അഡ്വാൻസ് ആണ് 1 e other noncurrent assets എബിസിഡി കൂടാതെ ഏതെങ്കിലും Long Term Assets ഉണ്ടെങ്കിൽ അതാണ് 1 e other noncurrent assets ആയി കാണിക്കുന്നത് ഇനി നമ്മൾക്ക് രണ്ടിലേക്ക് പോവാം ഒന്നാമത്തേത് noncurrent രണ്ടാമത്തേത് കറണ്ട് കറൻറ് Assets കളുടെനിർവചനം എന്താണ് ഒരു കൊല്ലത്തിനുള്ളിൽ പണമായിമാറ്റാവുന്നതാണ് ഒന്നാമത്തെ സെഷനിൽ നമ്മൾ ബിസിനസ് സൈക്കിളിനെ പറ്റി പഠിച്ചിരുന്നു ബിസിനസ് Cycleളിൽ കൈമാറ്റങ്ങൾ ആണ്നടക്കുന്നത് ഓരോ നിമിഷവുംCurrent Assets കളുടെ കൈമാറ്റംനടക്കുന്നു തുടർച്ചയായി കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാൽ Fixed Assets കൈമാറ്റം ചെയ്യുന്നത് രണ്ടുവർഷം കഴിഞ്ഞിട്ട്അല്ലെങ്കിൽ ഇൽ മൂന്നുവർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാലുവർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽഅഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് 2a current investments എന്താണ് കറൻറ് investments എന്താണ് investment എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബിസിനസിന് ഔട്ട് സൈഡിൽ എവിടെയെങ്കിലും പണം നിക്ഷേപിച്ചാൽ അതാണ് ഇൻവെസ്റ്റ്മെൻറ് മൂന്നുമാസം ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽഅത് Current Investment ആണ് അതുപോലെ Share നിക്ഷേപം 2 Months കഴിഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിൽഅതും കറക്റ്റ് Investment ആണ് 2 b inventoriesആണ് എന്താണ് inventory inventoryയുടെ മറ്റൊരു വാക്കാണ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽRaw മെറ്റീരിയൽ ഉണ്ട് നമ്മൾ അത് Finished Goods ആക്കി മാറ്റുന്നു അല്ലെങ്കിൽ നമുക്ക് Finished ഗുഡ്സ് വാങ്ങിക്കുവാൻ സാധിക്കും

ഇത് രണ്ടും കൂടി ആണ് Inventories എന്ന് വിളിക്കുന്നത്

സാധാരണ ആക്ടിവിറ്റീസ് മൂലംപരിവർത്തനം ചെയ്യാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്ന items ആണിത് അടുത്തത് trade receivable എന്താണ് trade receivable B to B ബിസിനസ് ഇടപാടുകളിൽ കൌണ്ടറിൽ കൂടി Sales നടത്തുന്നു എന്നാൽ ആ പണം ഉടനെ കിട്ടുന്നില്ല നമ്മൾ വസ്തുക്കൾ വിൽക്കുന്നു 15ദിവസത്തിനുശേഷം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടുമാസം കഴിഞ്ഞ് Bill അയക്കുന്നു കസ്റ്റമർ പെയ്മെൻറ് നടത്തുന്നു ആയതിനാൽ പണം കിട്ടുന്ന സമയം വരെ വരെ അതിനെ Trade Payables എന്നാണ് വിളിക്കുന്നത് ട്രേഡ് എന്നത് ബിസിനസ് എൻറെ day to day activitiesകാണിക്കുന്നു 2 d cash and cash equivalent എല്ലാവരും cash ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു എന്താണ് ക്യാഷ് equivalent വളരെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റുവാൻ സാധിക്കുന്നതിനെ ആണ് Cash equivalentഎന്ന് വിളിക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് Cash Flow Statement എന്നതിനെപ്പറ്റിനമ്മൾ വിശദമായി പഠിക്കും ആ സമയത്ത് Cash equivalent പറ്റി കൂടുതൽ പഠിക്കാം e short term loans and advances നിങ്ങൾ ജോലിക്കാർക്ക് Loan കൊടുത്താലോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്ക് കൊടുത്താലോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അഡ്വാൻസ് കൊടുത്താലോ നോക്കാം അതെല്ലാം ലോൺ അഡ്വാൻസ്എന്ന തലക്കെട്ടിൽ വരും ഒരു വർഷത്തിൽ താഴെ ആണെങ്കിൽ Short Term ലോൺസ് അഡ്വാൻസ് എന്നു വിളിക്കുന്നു 2 f other current assets ഒരു particular ഐറ്റ0 Short termആണ് എന്നാൽ a മുതൽe വരെ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് രണ്ട് f other current assets ആണ് കാണിക്കുക എന്താണ് Assets എന്നതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിക്കാണും എന്ന് വിചാരിക്കുന്നു Total of 1 plus 2 ഒരു വർഷത്തിലധികം കഴിഞ്ഞിട്ടാണ് പണമാക്കി മാറ്റുന്ന എങ്കിൽ Non കറൻറ് Assetsഎന്നു വിളിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റുന്ന എങ്കിൽ അത് Current Assetsആണ് നിങ്ങൾ ബാലൻസ് ഷീറ്റ് റെഘടകങ്ങളെ പറ്റി നോക്കുമ്പോൾ മൂന്ന് Elements ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തേത് അസറ്റ് പിന്നെ അതു വാങ്ങാനുള്ള പണം ഒന്നുകിൽ external liability അല്ലെങ്കിൽ owners fund വിശദമായി നോക്കാം എന്താണ് ഒരു Asset റെ നിർവചനം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാമ്പത്തിക ഗുണമാണ് അതിൻറെ ഉടമസ്ഥാവകാശംസ്ഥാപനത്തിന് ആയിരിക്കും രണ്ട് Conditions സഫലീകരിക്ക പെട്ടാൽ മാത്രമാണ് Assets എന്നത് വിളിക്കുവാൻ പറ്റുക ഒന്നാമത്തേത് അതിനൊരു സാമ്പത്തിക മൂല്യം വേണം രണ്ടാമത്തേത്അതിൻറെ ഉടമസ്ഥൻ ഉണ്ടായിരിക്കണം ആദ്യത്തെ സെഷനിൽ Human Assets പറ്റി ചർച്ച നടത്തിയിരുന്നു അത് Asset ആണോ രണ്ടാമത്തെ കണ്ടീഷൻപാലിക്കപ്പെടുന്നുണ്ടോ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന employee scientistമാനേജർ എക്സിക്യൂട്ടീവ് തുടങ്ങിയ വ്യക്തികൾ കമ്പനിക്ക്പ്രധാനപ്പെട്ടതാണ് കമ്പനിയുടെ Asset ആണ് എന്നാൽ Balance sheet ൽ കാണിക്കാൻ പറ്റുമോകാണിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഭാവിയിൽ സാമ്പത്തിക ഗുണം ഉണ്ടാകും പക്ഷേ Employees നമ്മുടെ അടിമകളല്ല അവരുടെമേൽ കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഇല്ല അതുകൊണ്ട് കമ്പനിക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കുവാൻ സാധിക്കുകയില്ല ഈ രണ്ട് Conditions സഫലീകരിക്ക പെട്ട Assets ഏതൊക്കെയാണ് Cashലാൻഡ് ബിൽഡിങ് investment machineryതുടങ്ങിയവ ചില കഴിഞ്ഞകാല സംഭവങ്ങളുടെഫലമായി സ്ഥാപനത്തിൻറെ ഉടമസ്ഥതയിൽ വരുന്ന Resources ആണ് Assets എന്നാൽ അതിനൊരു future Valueഉണ്ട് രണ്ടാമത്തെ കാര്യം അതിൻറെ കോസ്റ്റ് അല്ലെങ്കിൽ വില reliably കണ്ടുപിടിക്കാൻ പറ്റണം Cost അല്ലെങ്കിൽ വില reliably കണ്ടുപിടിക്കുവാൻ പറ്റിയാൽ മാത്രമാണ് ബാലൻ ഷീറ്റിൽ കാണിക്കുക കഴിയുന്നത്

ഇപ്പോൾ മൂന്നെണ്ണത്തിൽ പെട്ട Assets കിട്ടിയിട്ടുണ്ട് ഉണ്ട് ഒന്ന് Fixed Assets 2 Current Assets